എൻജിനീയറിങ് മാത്തമാറ്റിക്സ് I Engineering Mathematics I എന്ന കോഴ്സിന്റെ ലക്ച്ചറുകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പതിനഞ്ചാമത്തെ ലക്ച്ചർ ആണ് ഇന്ന് നമ്മൾ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനെ കുറിച്ചും ഹോമോജീനസ് ഫംഗ്ഷനെ കുറിച്ചും ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷനുകൾ ഇവിടെ ഫംഗ്ഷൻz f x y എന്നത് 2 വേരിയബിളുകളായ x ഉം y ഉം ഉള്ള ഒരു ഫംഗ്ഷൻആണ് ഈ x t യെ ആശ്രയിക്കുന്നു എന്നു കരുതുക അതിനാൽ x ഒരു ϕ യുടെ ഫംഗ്ഷൻ ആണ് മാത്രമല്ല ഇവിടെ y ഉം t യുടെ ഒരു ഫംഗ്ഷൻ ആണ് അത് സൂചിപ്പിക്കുന്നത് ψ കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഈ ഫംഗ്ഷനിൽ x എന്നത് 2 വേരിയബിളുകളായ u ന്റെയും v യുടെയും ഫംഗ്ഷൻ ആണ് അതുപോലെ y ഉം u ന്റെയും v യുടെയും ഫംഗ്ഷൻ ആണ് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇവിടെ ഇക്വേഷൻ നമ്പർ 2 ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 പ്രൈം ആണ് അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ 1 ഉം 2 ഉം ഒരുമിച്ച് അല്ലെങ്കിൽ 1 ൻറെ കൂടെ 2 പ്രൈമും ഒരുമിച്ച് z നെ t യുടെ കോമ്പോസിറ്റ് ഫംഗ്ഷനായി സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ കേസിൽ u ന്റെയും v യുടെയും കോമ്പോസിറ്റ് ഫംഗ്ഷൻ അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി എന്താണ് ചർച്ച ചെയ്യുക എന്നാൽ നമുക്ക് ഉദാഹരണമായി 2t ക്ക് അനുസൃതമായി ഈ ഫംഗ്ഷൻz ൻറെ ഡെറിവേറ്റീവ് ലഭിക്കണം കാരണം ആദ്യത്തെ കേസിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം എടുക്കുകയാണെങ്കിൽ ഈ z x നേയും y യേയും ആശ്രയിക്കുന്നു പക്ഷേ x ഉം y ഉം t യെയാണ് ആശ്രയിക്കുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ഈ z എന്നത് t യുടെ ഒരു ഫംഗ്ഷൻആണ് തുടർന്ന് t ക്ക് അനുസൃതമായിട്ടുള്ള z ന്റെ ഡെറിവേറ്റീവ് നേരിട്ട് നിർവചിക്കാവുന്നതാണ് അതിനാൽ ഈ ഫംഗ്ഷനിൽ ഈ xy എന്നിവ മാറ്റി സ്ഥാപിക്കാതെ അതിനെ t യുടെ ഒരു ഫംഗ്ഷനാക്കി മാറ്റി കൊണ്ടും പിന്നീട് ഡെറിവേറ്റീവ് എടുത്തു കൊണ്ടും ഈ z ൻറെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടെത്താം എന്നതിന് നമുക്കൊരു സൂത്രവാക്യവും ഉണ്ടാക്കിയെടുക്കാം xy എന്നീ രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനായ f എന്ന ഫംഗ്ഷൻറെ ഭാഗിക ഡെറിവേറ്റീവ് ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു സൂത്രവാക്യം നമ്മൾ ഉണ്ടാക്കി എടുക്കും മാത്രമല്ല ഇവിടെ x ഉം y ഉം ϕ യുടെയും ψ യുടെയും അതുപോലെ t യുടെയും ഫംഗ്ഷനാണ് f xy എന്ന ഫംഗ്ഷനിലെ x നേയും y നേയും t യുടെ അടിസ്ഥാനത്തിൽ പകരം വെക്കാതെ z ൻറെ ഡെറിവേറ്റീവ് നേരിട്ട് ലഭിക്കുന്നതിനായി നമ്മൾ ഈ ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് ഉപയോഗിക്കും ഇതേ സാഹചര്യത്തിൽ നമുക്ക് ഇക്വേഷൻ 1 ൽ z fxy എന്നതും xϕ u v എന്നതും yψ u v എന്നതുമുണ്ട് ഇനി ഇതിലെ ആദ്യത്തെ കാര്യമെടുത്താൽ z ൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവുകൾ ഉണ്ടെന്നു വെക്കുക അല്ലെങ്കിൽ z fxy ഡിഫറെൻഷ്യബിൾ ആണെന്ന ഈ സങ്കല്പവും നമുക്കെടുക്കാം അപ്പോൾ ഈ fxy ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ് കൂടെ xϕt yψt എന്നും നമ്മൾ കരുതുന്നു അവയ്ക്ക് കണ്ടിന്യൂസ് ഡെറിവേറ്റീവുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇവ വീണ്ടും ഡിഫറെൻഷ്യബിൾ ഫംഗ്ഷനുകളാണെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഈ സാഹചര്യത്തിൽ dzdt എന്ന് ലഭിക്കുമെന്ന് പറയുന്ന ഈ സൂത്രവാക്യം നമുക്ക് കണ്ടെത്താം അപ്പോൾ t ക്ക് അനുസൃതമായിട്ടുള്ള z ന്റെ സാധാ ഡെറിവേറ്റീവ് ഇപ്പോൾ അർത്ഥവത്തായിട്ടുണ്ട് കാരണം x ഉം y ഉം t യുടെ ഫംഗ്ഷനാണ് അപ്പോൾ അടിസ്ഥാനപരമായി ഈ z t യുടെ മാത്രം ഫംഗ്ഷനാണ് അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ ഈ സൂത്രവാക്യം പറയുന്നത് നമുക്ക് ഈ സാധാ ഡെറിവേറ്റീവായ dzdt x ന് അനുസൃതമായിട്ടുള്ള z ൻറെ ഭാഗിക ഡെറിവേറ്റീവിന് തുല്യമാണ് എന്ന് ലഭിക്കുമെന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ f രണ്ട് വേരിയബിളുകളായ x ന്റെയും y യുടെയും ഫംഗ്ഷൻഎന്നത് ഉപയോഗിക്കുകയാണ് അതിനാൽ ഇവിടെ നമ്മൾ ഈ x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവുകളെ എടുക്കുകയും t ക്ക് അനുസൃതമായിട്ടുള്ള x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കുകയും ചെയ്യും zf x y xϕ yψ അപ്പോൾ ഇത് വീണ്ടും ഒരു സാധാ ഡെറിവേറ്റീവാണ് കാരണം x ആദ്യത്തെ വേരിയബിളായ t യുടെ ഫംഗ്ഷനാണ് പിന്നെ ഇത് ഇതിനെതിരെയുള്ള ചെയിൻ റൂളും ആണ് കാരണം z y യുടെ കൂടി ഫംഗ്ഷൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് y ക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് ഉണ്ട് അതിനെ dydt കൊണ്ട് ഗുണിക്കുകയും ചെയ്യും അപ്പോൾ ഈയൊരു സൂത്രവാക്യം നമ്മൾ കണ്ടെത്തും ഇവിടെ zfxy എന്നതും x എന്നത് ϕ യുടെ ഒരു ഫംഗ്ഷൻആണെന്നതും y എന്നത് ψ യുടെ ഫംഗ്ഷൻആണെന്നതും എടുത്താൽ നമ്മുടെ നിർവചനമനുസരിച്ച് ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് z ϕ യുടെയും ψ യുടെയും ഡിഫറെൻഷ്യബിലിറ്റി നമ്മൾ ആദ്യമേ സങ്കല്പിച്ചിട്ടുള്ളതിനാൽ ഡിഫറെൻഷ്യബിലിറ്റി സൂചിപ്പിക്കുന്നത് നമുക്ക് Δz ∂x Δx ∂y Δy ψ1Δx ψ2Δy എന്ന് എഴുതാൻ കഴിയും എന്നതാണ് ഇനി ഈ പ്രയോഗത്തിന്റെ ഇരു വശങ്ങളിലും Δt കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്നാൽ ഇവിടെ ΔzΔt എന്നും ഇവിടെ ΔxΔt എന്നുമാണ് ഇവിടെ വീണ്ടും നമുക്ക് ΔyΔt എന്നതുണ്ട് കൂടെ ഈ dxdy എന്നതും Δt കൊണ്ട് ഹരിക്കും ഇനി ഇവിടെ നമ്മൾ ലിമിറ്റ് Δt→0 എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക Δt→0 എന്നാൽ Δx→0 Δy→0 എന്നാണ് കാരണം ഈ x ഉം y ഉം t യുടെ ഫംഗ്ഷനുകളാണ് t യിൽ വ്യതിയാനങ്ങളൊന്നുമില്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും x ലും y ലുമുള്ള xy വ്യതിയാനവും പൂജ്യം ആവും അപ്പോൾ Δt→0 അർത്ഥമാക്കുന്നത് Δx→0 Δy→0 എന്നതാണ് ഇനി ഈ പ്രയോഗത്തിൽ Δt→0 എന്നെടുക്കുകയാണെങ്കിൽ z ൻറെ ഡെറിവേറ്റീവിന്റെ നിർവചനമനുസരിച്ച് ΔzΔt എന്നത് dzdt എന്നത് പോലെയാണ് അത് ഇതേ പോലെ തന്നെ തുടരുകയും ചെയ്യും ΔzΔx നെ നമ്മൾ തൊടുന്നില്ല ഇനി ഇവിടെയുള്ളത് ΔxΔt ആണ് അപ്പോൾ വീണ്ടും t ക്ക് അനുസൃതമായിട്ടുള്ള x ന്റെ ഡെറിവേറ്റീവാണ് ഇത് അപ്പോൾ ഇവിടെ നമുക്ക് dxdt എന്നും ലഭിക്കും സമാനമായി ഇവിടെ വീണ്ടും ΔyΔt എന്നത് dydt എന്നുമാവും ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നുണ്ടെന്നും അവ നിശ്ചിത സംഖ്യകളാണെന്നും വീണ്ടും അനുമാനിക്കുകയാണെങ്കിൽ ഈ Δx→0 Δy→0 ആവുമ്പോൾ ϵ1→0 ϵ2→0 ആവുകയും കൂടെ ഇവിടെയുള്ള പ്രയോഗങ്ങളായ ϵΔxΔt ϵΔyΔt ഇവ രണ്ടും പൂജ്യത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെയുള്ള ഈ മൂന്നു പദങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ അതിനാൽ dzdt നമുക്ക് z ൻറെ ഭാഗിക ഡെറിവേറ്റിവുകളുടെ അടിസ്ഥാനത്തിലും xy എന്നിവയുടെ സാധാ ഡെറിവേറ്റീവുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് നേരിട്ട് കണ്ടെത്താനാവുന്നതാണ് x ഉം y ഉം എന്നിവ u നെയും v യേയും ആശ്രയിക്കുന്നുണ്ടെന്ന പൊതുവായ കാര്യം ഉണ്ടാവുമ്പോൾ ഈ സൂത്രവാക്യം ഇങ്ങനെയാവുന്നതാണ് അപ്പോൾ ഇത് മേലെ ചെയ്തത് പോലെ തന്നെ തെളിയിക്കാനാവുന്നതാണ് അപ്പോൾ ∂z∂u എന്നിവ ഇവിടെയുള്ള ഭാഗിക ഡെറിവേറ്റീവുകളാവും കാരണം x ഉം y ഉം രണ്ട് വേരിയബിളുകളായ u ടെയും v ടെയും ഫംഗ്ഷനുകളാണ് അപ്പോൾ ഇവിടെ u ക്ക് അനുസൃതമായിട്ടുള്ള z ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ഇവയൊന്നും ഈ ഫംഗ്ഷനിലേക്ക് പകരമാക്കാതെ തന്നെയും ലഭിക്കും ഇനി ഭാഗിക ഡെറിവേറ്റീവുകൾ ലഭിക്കാനായി u ക്ക് അനുസൃതമായിട്ടുള്ള z ന്റെ ഭാഗിക ഡെറിവേറ്റീവ് x ന് അനുസൃതമായിട്ടുള്ള z ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ഗുണിക്കണം കൂടാതെ u ക്ക് അനുസൃതമായിട്ടുള്ള x ന്റെ ഭാഗിക ഡെറിവേറ്റീവ് y ക്ക് അനുസൃതമായിട്ടുള്ള z ന്റെ ഭാഗിക ഡെറിവേറ്റീവും ഗുണിക്കണം u ക്ക് അനുസൃതമായ y യുടെ ഭാഗിക ഡെറിവേറ്റീവ് കാരണം നമ്മൾ ഭാഗികമായി u ക്ക് അനുസൃതമായ z നെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ u വരും ഇവിടെയും u വരും സമാനമായി ΔzΔv എന്നതിനും സമാനമായ സൂത്രവാക്യം ഉപയോഗിച്ചാൽ ഈ u എന്നുള്ളതിന് പകരമായി v വരും ഇനി ഇവയെ u ന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ u രണ്ടു സ്ഥലങ്ങളിലും വരും അതുപോലെ v യുടെ അടിസ്ഥാനത്തിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ v ഈ സ്ഥലങ്ങളിലും വരും നമ്മൾ x ന്റെ ഭാഗിക ഡെറിവേറ്റീവുകൾ u ൻറെ അടിസ്ഥാനത്തിലും ഇവിടെ v യുടെ അടിസ്ഥാനത്തിലും എടുത്തതാണ് ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം ഉദാഹരണമായി zxy എന്നത് t യുടെ ഒരു ഫംഗ്ഷൻആണ് അതിനെ ഇവിടെ നിർവചിച്ചിരിക്കുന്നത് xcos t എന്നായിട്ടാണ് അതുപോലെ y എന്നതും t യുടെ ഒരു ഫംഗ്ഷൻആണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത് ysin t എന്നതുകൊണ്ടാണ് ഇവിടെ dzdt എന്താണെന്നാണ് നമുക്ക് കണ്ടത്തേണ്ടത് നേരിട്ടുള്ള മാർഗ്ഗം എന്താണെന്നാൽ ഇവിടെ ഈ ഫംഗ്ഷനിൽ x ഉം y ഉം കൊടുക്കും പിന്നെ t യുടെ ഫംഗ്ഷൻആയി z ഉണ്ടാവും അതിനെ നമുക്ക് dzdt ലഭിക്കാൻ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ കഴിയും പക്ഷേ നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻറെ ആശയമായ z എന്നത് xy യുടെ ഫംഗ്ഷൻആണെന്നതും x എന്നത് t യുടെ ഫംഗ്ഷൻആണെന്നതും y എന്നത് t യുടെ ഫംഗ്ഷൻആണെന്നതും മേലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സൂത്രവാക്യം പ്രകാരം പിന്തുടരാവുന്നതാണ് അപ്പോൾ സൂത്രവാക്യം പറയുന്നതെന്തെന്നാൽ dxdt നമുക്ക് z എന്ന ഫംഗ്ഷൻറെ x ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവിന്റെ കൂടെ ചേർക്കാവുന്നതാണ് സമാനമായി y യുടെ ഭാഗിക ഡെറിവേറ്റീവ് dydt എന്നും ആക്കാവുന്നതാണ് അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുക അപ്പോൾ z എന്നത് x y ആണ് അതിനെ x ന് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ydxdt എന്ന് മാത്രമായിട്ട് മാറും x എന്നത് cos t എന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് sin t ലഭിക്കും സമാനമായി ∂z∂y എന്നത് xdydt എന്നാവും അത് sin t ആണ് അത് cos t ആയി മാറും അപ്പോൾ ഇവിടെ നമുക്ക് ysin t എന്ന് കിട്ടും ഇവിടെ sin2 t യും x എന്നത് cos t യുമായിരുന്നു അപ്പോൾ cos2 t യും ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഡെറിവേറ്റീവ് കണ്ടെത്തി കൊണ്ടും ഈ ഫംഗ്ഷനിലേക്ക് കൊടുക്കാതെയും t ക്ക് അനുസൃതമായിട്ടുള്ള z ൻറെ ഡെറിവേറ്റീവ് ഇതിനെ നമുക്ക് വീണ്ടും ലഘൂകരിച്ച് cos 2t എന്നാക്കാം ഞാൻ പറഞ്ഞതുപോലെ zx എന്നത് ഇവിടെ നമുക്ക് പകരം ചേർക്കാം x എന്നത് cos t ആണ് y എന്നത് sin t ഉം ഇനി നമുക്ക് z t യുടെ ഒരു ഫംഗ്ഷൻആയിട്ടുണ്ട് ഇതിൽനിന്ന് നമുക്ക് dzdt കണ്ടെത്താം ഇതിനെ ആദ്യം നമുക്ക് ½ എന്നാക്കാം അത് sin 2t ആണ് പിന്നീട് ഇവിടെ ഡിഫറൻഷിയേഷൻ എടുക്കുകയാണെങ്കിൽ ഇത് sin t cos t ആവുകയും ഈ 2 ഇല്ലാതായി പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഈ cos2t നേരിട്ട് തന്നെ ഉണ്ടാവും പക്ഷേ ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് ഡിഫറെൻഷിയേഷന്റെ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻറെ ഡിഫറെൻഷിയേഷൻ ആശയമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു സൂത്രവാക്യം പ്രകാരം ഈ x ൻറെയും y യുടെയും മൂല്യം ഈ ഫംഗ്ഷണിലേക്ക് പകരം ചേർക്കേണ്ടതില്ല പക്ഷേ z ൻറെ ഭാഗിക ഡെറിവേറ്റീവുകളുടെ സഹായത്തോടെ നേരിട്ട് നമുക്ക് ഫംഗ്ഷൻ t ക്ക് അനുസൃതമായിട്ടുള്ള z ൻറെ ഡെറിവേറ്റീവ് നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഇവിടെയുള്ള അടുത്ത പ്രശ്നത്തിൽ z എന്നത് x ൻറെയും y യുടെയും ഫംഗ്ഷനാണ് മാത്രമല്ല x രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷൻആണെന്നും നൽകിയിട്ടുണ്ട് u ആൻഡ് v ആണത് ഒപ്പം y ഉം u v എന്നീ രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷൻആണെന്നും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ u ക്കും v ക്കും അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവുകളുടെ വ്യത്യാസം x∂y∂x y∂z∂y എന്നായിട്ടെഴുതാം അപ്പോൾ z എന്നത് x ന്റെയും y യുടെയും ഫംഗ്ഷൻആണ് അപ്പോൾ മേലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സൂത്രവാക്യം പ്രകാരം നമുക്ക് ഇവിടെ ∂z ∂u ∂z ∂ x ∂x∂ u എന്നുണ്ട് xeu e−v ye−u ev അപ്പോൾ ഇത് ഇവിടെ u ആണെങ്കിൽ u ന്റെ അടിസ്ഥാനത്തിലുള്ള ഡെറിവേറ്റീവുകളായ x ന്റെയും y യുടെയും കൂടെ ഉള്ള രണ്ടു പദങ്ങളിലും u ഉണ്ടാവും അപ്പോൾ ഈ കേസിൽ ∂z ∂x കാരണം ഇത് നൽകിയിട്ടുള്ള ഫംഗ്ഷനല്ല ഇവിടെ z എന്നത് x y എന്നിവയുടെ ഫംഗ്ഷൻആണ് അതിനാൽ x ന് അനുസൃതമായിട്ടുള്ള z ന്റെ ഭാഗിക ഡെറിവേറ്റീവ് എന്നത് വരും പിന്നെ ∂x∂u ഉണ്ട് അപ്പോൾ ഇവിടെ x എന്തായിരുന്നു അപ്പോൾ നമ്മൾ u ക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം v യെ കോൺസ്റ്റൻഡായി കണക്കാക്കപ്പെടും അപ്പോൾ u ക്ക് അനുസൃതമായിട്ടുള്ള x ന്റെ ഭാഗിക ഡെറിവേറ്റീവ് eu എന്നാവും അത് ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ ∂z ∂u ഉം ∂y ∂u യും ഉണ്ട് അപ്പോൾ y ഇവിടെ e−u ev എന്നാണ് ഇനി ഇവിടെ u ക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് e−u എന്ന ഇവിടെയുള്ള പദം ലഭിക്കും ഇനി v ക്ക് അനുസൃതമായിട്ടുള്ള z ന്റെ ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇതേ സൂത്രവാക്യം ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ u ക്ക് പകരം v ആണുള്ളത് ശേഷം v ക്ക് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ e vഎന്നത് e v നമുക്ക് എന്ന് ലഭിക്കും ഇനി ഇവിടെ v ക്ക് അനുസൃതമായിട്ടുള്ള y ഉണ്ട് ഇത് ev എന്നാവും ഇനി ഈ രണ്ടു ഭാഗിക ഡെറിവേറ്റീവുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ലഭിക്കണമെന്നുള്ളതിനാൽ ഇവിടെയുള്ള വ്യത്യാസം എടുക്കുകയും അപ്പോൾ ∂z ∂x എന്നുള്ളത് പ്ലസ് ആവും അപ്പോൾ ∂z∂x പൊതുവായിട്ടെടുക്കുകയാണെങ്കിൽ ഇത് eue−vഎന്നാവും സമാനമായി ഇവിടെ ഈ രണ്ടു പദങ്ങളും ചിഹ്നം ഉപയോഗിച്ച് പൊതുവായിട്ടെടുത്താൽ വീണ്ടും e−u ev എന്നത് ഇവിടെ എഴുതിയത് പോലെയാവും മാത്രമല്ല eue−v എന്നത് x ഉം e−u ev എന്നത് y ഉം ആണ് അപ്പോൾ നമുക്ക് ആവശ്യമായ പദം തന്നെ നമുക്ക് കൃത്യമായി ലഭിക്കും അപ്പോൾ ഇത് x∂z ∂x y∂z ∂y ഈ ലക്ച്ചറിലെ അടുത്ത ഭാഗം ഹോമോജീനിസ് ഫംഗ്ഷനുകൾ നിർവചിക്കാനുള്ളതാണ് എന്താണ് ഹോമോജീനിസ് ഫംഗ്ഷൻഎന്നത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതാണ് n വർഗ്ഗമുള്ള x y എന്ന പ്രയോഗം ഹോമോജീനസാണ് അപ്പോൾ n വർഗ്ഗമുള്ള x ലും y ലുമുള്ള ഏതൊരു പ്രയോഗവും xnfyx എന്ന രൂപത്തിൽ പ്രകടിപ്പിക്കാമെങ്കിൽ അപ്പോൾ ഇത്തരം ഫംഗ്ഷണിനെ n വർഗ്ഗമുള്ള ഹോമോജീനസ് ഫംഗ്ഷൻഎന്നാണ് വിളിക്കുന്നത് xn fyx ഇവിടെയുള്ള ഈ n പ്രധാനമാണ് നമുക്ക് xn കൊണ്ടുവരാനാവുമെങ്കിൽ ബാക്കിയുള്ള പദം yx എന്ന ഫംഗ്ഷനായിട്ട് എഴുതാം അപ്പോൾ ഇത്തരമൊരു പ്രയോഗത്തെ നമ്മൾ n വർഗ്ഗമുള്ള ഹോമോജീനസ് പ്രയോഗം എന്ന് വിളിക്കുന്നു ഇനി ഫംഗ്ഷണിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ fxy n വർഗ്ഗമുള്ള ഹോമോജീനസ് ആണെന്ന് പറയുന്നത് അതിൽ നമ്മൾ x y എന്നീ വാദങ്ങളെ tx ty എന്നതുകൊണ്ട് മാറ്റുകയും വീണ്ടും ഫംഗ്ഷണിൽ നിന്ന് ഈ t n കൊണ്ടുവരാൻ ആവുമെങ്കിൽ അവിടെ x y യുടെ ഫംഗ്ഷൻഅവിടെ നിലനിൽക്കും അപ്പോൾ നമുക്ക് വീണ്ടും n വർഗ്ഗമുള്ള ഹോമോജീനസ് ഫംഗ്ഷൻ എന്ന ആശയം ലഭിക്കും അപ്പോൾ അത്തരമൊരു ഫംഗ്ഷനെ നമ്മൾ n വർഗ്ഗമുള്ള ഹോമോജീനസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു f tx ty tn f x y അപ്പോൾ ഇതെല്ലാമാണ് ഹോമോജീനസ് ഫംഗ്ഷനുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ ഉദാഹരണത്തിന് fxy a0 xn a1xn−1 ya2xn−2 y2 an yn എന്ന് പരിഗണിക്കുകയാണെങ്കിൽ ഇതൊരു n വർഗ്ഗമുള്ള ഹോമോജീനസ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ കണ്ടെത്തും എന്തുകൊണ്ടാണ് n വർഗ്ഗം കാരണം നമ്മൾ ഈ xn എല്ലാ പദങ്ങളിൽ നിന്നും എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുകയെന്നാൽ ഇത് a0 ആയിരിക്കും കാരണം xn നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇവിടെ വീണ്ടും നമ്മൾ xn പുറത്തെടുത്തിട്ടുണ്ട് അതിനാൽ 1 x നമ്മൾ ഹരിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ a1 yx എന്നായി മാറും വീണ്ടും നമ്മൾ ഇവിടെ xn പുറത്തേക്കെടുത്താൽ അപ്പോൾ x 2 ബാക്കിയാവും അതിനർത്ഥം a2 yx2 എന്നാവും ഇവിടെ an xn പുറത്തേക്കെടുത്തു അപ്പോൾ ഈ xn ഡിനോമിനേറ്ററിലെ പദം ആവുകയും ഇവിടെ വീണ്ടും നമുക്ക് yxn എന്ന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെയുള്ള എല്ലാ പദങ്ങളെയും അല്ലെങ്കിൽ ഈ ഫംഗ്ഷനിനെ yx ന്റെ ഫംഗ്ഷൻഎന്ന് സൂചിപ്പിക്കാം കാരണം ഈ yx എല്ലാ പദങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ yx എന്നതിന്റെ ഫംഗ്ഷനായി പരിഗണിക്കാം പിന്നെ xn പുറത്താണുള്ളത് അതിനാൽ ഇത് n വർഗ്ഗമുള്ള ഹോമോജീനസ് ഫംഗ്ഷൻആണ് സമാനമായി നമ്മൾ ഈ 1 fxy √y√xyx എന്നത് പരിഗണിക്കുകയാണെങ്കിൽ ഈ കേസിലും നമുക്ക് ഇതിനെ x ഏതെങ്കിലും പവർ ആയി എഴുതാവുന്നതാണ് ബാക്കിയുള്ളവയെ നമുക്ക് yx ന്റെ ഫംഗ്ഷൻഎന്ന് പരിഗണിക്കാം ഇത് എളുപ്പമാണ് കാരണം ഇവിടെ നമുക്ക് √x പുറത്തെടുക്കാം ഇവിടെ നമ്മൾ x ഉം പുറത്തെടുക്കുന്നു അപ്പോൾ ഇവിടെ √xx ഉം ഇതിനകത്ത് ഇവിടെ ഒരു √yx1 ഉം ഇവിടെ yx 1 എന്നുമാണുള്ളത് ഇനി ഇവിടെയുള്ള ഈ പ്രയോഗം നമുക്ക് yx എന്നൊരു ഫംഗ്ഷനായി കണക്കാക്കാം ഇനി ഇവിടെ ഒരുമിച്ചുള്ളത് x ½ ആണ് അതിനാൽ ഇതിനെ നമുക്ക് x ½yx ന്റെ ഏതെങ്കിലുമൊരു ഫംഗ്ഷണായും എഴുതാം കാരണം ഇവിടെയുള്ള എല്ലാ പദങ്ങളിലും yx ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് yx ന്റെ ഏതെങ്കിലുമൊരു ഫംഗ്ഷൻആണെന്ന് പറയാം മാത്രമല്ല ഇവിടെ x ½ ഉണ്ട് അപ്പോൾ ഇത് ½ വർഗ്ഗമായ ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് അപ്പോൾ ഈ ഹോമോജീനസ് ഫംഗ്ഷൻറെ പ്രാധാന്യം എന്താണ് അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും അപ്പോൾ ഈ വർഗ്ഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദാഹരണത്തിന് ഇവിടെ അത് n ആയിരുന്നു അല്ലെങ്കിൽ ഇവിടെ ½ അതിനാൽ ഈ ഡെറിവേറ്റീവ് പദത്തിന് n ന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂത്രവാക്യം ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് യുലെഴ്സ് തിയറം ഓൺ ഹോമോജീനസ് ഫങ്ഷൻ Euler's theorem on homogeneous function ഇത് പറയുന്നതെന്തെന്നാൽ z എന്നത് n വർഗ്ഗമായിട്ടുള്ള x ന്റെയും y യുടെയും ഹോമോജീനസ് ഫംഗ്ഷൻആണെങ്കിൽ അത് പോലെ ഈ ഭാഗിക ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നുമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം x ∂z ∂xy ∂z∂y nz ഇതൊരു ഹോമോജീനസ് ഫംഗ്ഷനാണെന്ന് നമുക്കറിയാമെങ്കിൽ ഇത് നമുക്ക് വേർതിരിച്ചു കണക്കു കൂട്ടേണ്ടതില്ല അപ്പോൾ x z x y z y എന്നിവ nz ആവുകയും വർഗ്ഗത്തിന്റെ ഡൊമൈനിലുള്ള ഫംഗ്ഷനിന്റെ ഡൊമൈനിലുള്ള എല്ലാ xy പോയിന്റുകൾക്കും ഇങ്ങനെയാവും അപ്പോൾ zfxyഎന്നത് ഒരു ഹോമോജീനസ് ഫംഗ്ഷൻആവുന്നു അപ്പോൾ ഇതൊരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് n വർഗ്ഗമുള്ള x ന്റെയും y യുടെയും ഹോമോജീനസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് xn gyx എന്നെഴുതാം നമുക്കറിയാം ഇതിനെ നമുക്ക് x ന്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പോൾ ഇവിടെ x ന് അനുസൃതമായി ഇതിന്റെ ഭാഗിക ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കെന്താണ് ഇവിടെ കിട്ടുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അപ്പോൾ nxn 1 ഇവിടെയുള്ളത് ഇതുപോലെ തുടരുകയും ചെയ്യും അപ്പോൾ xn ഇതു പോലെയായിരിക്കും ഇനി gyx നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് g'yx എന്ന് ലഭിക്കും അപ്പോൾ g'yx എന്ന ആർഗ്യുമെന്റിന് അനുസൃതമായി g യുടെ ഡെറിവേറ്റീവ് പിന്നെ ഇവിടെ yx x ന് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയും ചെയ്താൽ ഇവിടെ നമുക്ക് yx2 എന്ന് ലഭിക്കുകയും ചെയ്യും ഇനി ഇതിനെ നമ്മൾ കുറച്ച് ലഘൂകരിക്കുകയാണെങ്കിൽ ഇവിടെ nxn 1 ഉം gyx ഉം ഇനി ഇവിടെ നമുക്ക് ചിഹ്നം നൽകുകയും ചെയ്യാം അപ്പോൾ yn xn 2gyx ∂z∂y ഇതിനെ നമുക്ക് y ക്ക് അനുസൃതമായി ഡിഫറെൻഷിയേറ്റ് വീണ്ടും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ xn എന്നത് കോൺസ്റ്റൻഡായി കണക്കാക്കാം മാത്രമല്ല നമുക്ക് ഈ പദം ഡിഫറെൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ g'yx ഉണ്ട് yx എന്ന y ക്ക് അനുസൃതമായിട്ടുള്ള ഡെറിവേറ്റീവ് 1x ∂y∂x 1x എന്നായിരിക്കും ഇനി ഈ രണ്ടു പദങ്ങളും ഇവിടുത്തെ x ന്റെയും അവിടുത്തെ y യുടെയും ഗുണനഫലം കൊണ്ട് കൂട്ടുകയാണെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുക അതിനാൽ അതിനെ x കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ നമുക്ക് xn ഉം ഇവിടെ xn 1 എന്നും ലഭിക്കും ഇവിടെ ഇത് നമ്മൾ y കൊണ്ട് ഗുണിക്കും അപ്പോൾ ഇത് ഇവിടെ കൃത്യമായി nxn ഉം yxn 1 ഉം ഈ കേസിൽ xn ഉണ്ട് അതിനെ പിന്നീട് y കൊണ്ട് ഗുണിക്കുകയും ചെയ്തു അതിനാൽ ഇത് xn 1 അതിനെ നമ്മൾ y കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ ഈ രണ്ടു പദങ്ങളും ഇല്ലാതായി പോവുകയും ചെയ്യും ഇവിടെ നമുക്ക് nxngyx ഉം xngyx ഉണ്ട് ഇതായിരുന്നു z അല്ലെങ്കിൽ ഫംഗ്ഷൻf xy അപ്പോൾ ഇവിടെ ഈ പദങ്ങൾ ഇല്ലാതാവുകയും n z നു വിധേയമായി ലഭിക്കുകയും ചെയ്യും അപ്പോൾ n ഉം ഇവിടെയുള്ള z ഉം ഇല്ലാതാവും ഇനിയുള്ളത് മൂന്നാമത്തെ പ്രശ്നം ആണ് ഇവിടെ നമുക്ക് utan 1x3y3x y x≠y കാരണം ഇപ്പോൾ ഇതിനെ നിർവചിച്ചിരിക്കുന്നത് xy എന്നാണ് ഇനി കാണിക്കേണ്ടത് എന്തെന്നാൽ x∂u∂x y∂u∂y sin2x ഇവിടെ ഈ കേസിൽ വീണ്ടും ഇവിടെ നൽകിയിട്ടുള്ള ഫംഗ്ഷൻഎന്നത് tan 1x3y3x y എന്നത് ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ അല്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഈ tan 1 ഉള്ളതുകൊണ്ട് x ൽ എന്തെങ്കിലും പവർ ആയിട്ട് കൊണ്ടു വരാൻ പറ്റുകയില്ല മാത്രമല്ല ബാക്കിയുള്ളവ yx ന്റെ അടിസ്ഥാനത്തിൽ എഴുതാനും പറ്റില്ല ഇതിനർത്ഥം x3y3x y എന്നത് ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണെന്നാണ് ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തും കാരണം ഇവിടെ നമുക്ക് z നെ tan u ആയിട്ട് നിർവചിക്കാം കാരണം ഈ tan ഇടതുവശത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് tan u x3y3x y എന്ന് ലഭിക്കും ഇനി ഇവിടെയുള്ള z എന്നത് 2 വർഗ്ഗമായിട്ടുള്ള ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് കാരണം ഇവിടെ നമുക്ക് x2 എന്നായി എഴുതാവുന്നതാണ് അപ്പോൾ x3 നമ്മൾ ന്യുമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും പൊതുവായിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് x2 എന്നും ഇത് 1yx3 എന്നുമാവും അപ്പോൾ ഇത് 1 ആണ് അതിനാൽ 1yx3 ഇനി നമുക്ക് 1 yx ഉണ്ട് അപ്പോൾ ഇത് 2 വർഗ്ഗമായിട്ടുള്ള ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് ഇനി ഈ ഫംഗ്ഷൻ z ൽ നമുക്ക് യൂലെഴ്സ് സിദ്ധാന്തം Euler's Theorem പ്രയോഗിക്കാം ztan u എന്നതിൽ യൂലെഴ്സ് സിദ്ധാന്തം പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 2 തവണ z എന്നും z എന്നത് tan u എന്നുമായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് xx എന്നും പിന്നെ ∂z ∂u എന്നും കിട്ടും ഇവിടെ നമുക്ക് ∂z∂u എന്നാൽ എന്താണെന്ന് കാണണം നമുക്ക് ztan u എന്ന് നൽകിയിട്ടുണ്ട് അതിനാൽ ∂z∂x എന്നത് sec2u ∂u∂x എന്നിട്ട് നമ്മൾ ∂z∂x എടുക്കും പക്ഷേ ഇവിടെ നൽകിയിട്ടുള്ളത് ∂u∂x ആണ് അപ്പോൾ നമ്മൾ sec2u ഉം പിന്നീട് ∂u∂x ഉം എടുക്കും ഇനി ഇവിടെയുള്ളത് y ഉം അതുപോലെ ∂z∂y ആണ് അപ്പോൾ ഇവിടുത്തെ tan എന്നത് sec2u ഉം ∂u∂y2z എന്നും കിട്ടും അതിനാൽ ztan u ആണ് കൂടാതെ sec u എന്നത് പൊതുവായിട്ടുള്ളതുമാണ് അതിനെ നമുക്ക് വലതു വശത്തേക്ക് കൊണ്ട് വരാം അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് x∂u∂xy∂u∂y എന്നാണ് ഇവിടെയുള്ള sec u അവിടേക്ക് പോയാൽ cos2u എന്നാവും അപ്പോൾ ഇത് 2tan u ഇവിടെയുള്ള sec2u ഡിനോമിനേറ്ററിലായിരിക്കും അത് പിന്നീട് cos2 ആവുകയും ചെയ്യും അപ്പോൾ ഇവിടെയുള്ള sin ucos u എന്നത് tan ആവുകയും പിന്നെയുള്ളത് cos2u ആണ് അപ്പോൾ ഇത് ഇല്ലാതാവും ഇവിടെ നമുക്ക് 2sin u cos u ഉള്ളത് sin2u ആയി മാറും അപ്പോൾ നമുക്ക് ഈ z ൻറെ അളവ് x∂u∂xy∂u∂ysinu എന്ന് ലഭിക്കും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇവിടെയുള്ള a ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ അല്ല പക്ഷേ ഇതിനെ ztan u x3y3x y എന്നായി നിർവചിക്കുമ്പോൾ അത് ഹോമോജീനസ് ആവും പിന്നീട് നമ്മൾ z ൽ യൂലേഴ്സ് ഫലം പ്രയോഗിച്ചിട്ടുണ്ട് ഈ ztan u എന്നത് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ x നും y ക്കും അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവുകൾ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഫലം ലഭിക്കും ഈ യൂലർ ഫലത്തിൻറെ സാമാന്യവൽക്കരണം പറയുന്നത് അത് ഏക വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവുകളുടെ കാര്യത്തിലായിരുന്നു പക്ഷേ എങ്കിലും രണ്ടാം വർഗ്ഗ ഭാഗിക ഡെറിവേറ്റീവുകളുടെ കാര്യത്തിലും നമുക്ക് ഫലങ്ങളുണ്ട് അത് ഇതിന്റെ ഒരു വിപുലീകരണമാണ് അത് പറയുന്നത് x2 ∂2 z ∂x2 2xy y2∂2 z ∂x2 n n−1 z എന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഫലത്തിന്റെ സാമാന്യവൽക്കരണം ഇനി ഇതിൽ നമ്മൾ ഒരു പ്രശ്നം ചെയ്യാം zxy f yx g yx എന്ന് വെക്കുക ഇവിടെ f ഉം y ഉം രണ്ട് തവണ ഡിഫറൻഷ്യബിളായ ഫംഗ്ഷൻ ആണ് ഇനി ഈ പ്രയോഗം നമ്മൾ z നു വേണ്ടി വിലയിരുത്തും അപ്പോൾ z എന്നത് x ന്റെയും y യുടെയും ഹോമോജീനസ് ഫംഗ്ഷൻ അല്ല പക്ഷേ ഇവിടെ ഇതൊരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് രണ്ടാമത്തെ g യും ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് കാരണം അത് yx ന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് നൽകിയിട്ടുള്ളതിനാൽ ഇത് എഴുതാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് zu1u2 ഇവിടെ ആദ്യത്തെ പദം u1 ആയും ഇവിടെ u2 ആയും എടുക്കും ഇതിനർത്ഥം ഈ u1 എന്നത് xy fyx ആണ് u2 എന്നത് g yx ഉം ആണ് അപ്പോൾ ഇത് 2 വർഗ്ഗമായിട്ടുള്ള ഹോമോജീനസ് ഫംഗ്ഷൻ ആണ് കാരണം ഇവ നമുക്ക് വീണ്ടും x2yx ആയും ഇത് f yx ആയും എഴുതാവുന്നതാണ് അപ്പോൾ ഇത് yx ന്റെ ഒരു ഫംഗ്ഷനാണ് ഇനി ഇവിടെ x2 ഉണ്ട് അതിനാൽ ഇവിടെ വർഗ്ഗം 2 ആണ് മാത്രമല്ല g എന്നത് yx ന്റെ ഒരു ഫംഗ്ഷനുമാണ് ഇവിടെ x ന്റെ ഒരു പദവുമില്ല x0 അപ്പോൾ ഇത് 0 വർഗ്ഗമായിട്ടുള്ള ഹോമോജീനസ് ഫംഗ്ഷനാണ് അപ്പോൾ u12 വർഗ്ഗമായിട്ടുള്ള ഒരു ഹോമോജീനസ് ഫംഗ്ഷനും u20 വർഗ്ഗമായിട്ടുള്ള ഒരു ഹോമോജീനസ് ഫംഗ്ഷനും z എന്നത് u1 u2 ആണ് u1 നൽകിയിട്ടുള്ളത് ഇങ്ങനെയും u2 ഇങ്ങനെയുമാണ് അപ്പോൾ യൂലെഴ്സ് സിദ്ധാന്തം u1 ലും u2 ലും പ്രയോഗിക്കാം കാരണം അവ 2 ഉം 0 വും വർഗ്ഗമായിട്ടുള്ള ഹോമോജീനസ് ഫംഗ്ഷനുകളാണ് അപ്പോൾ സിദ്ധാന്ത പ്രകാരം u1 ലെ രണ്ടാമത്തെ ഡെറിവേറ്റീവിന് രണ്ടു തവണ എന്നാണ് പറയുന്നത് അതിനാൽ n2 ആണ് അപ്പോൾ nu1 ന്റെ വർഗ്ഗം 2 ആണ് അപ്പോൾ നമുക്ക് 2 1 u1 എന്നത് xyfy2 ആണെന്ന് നമുക്കറിയാം അത് നമ്മൾ പിന്നീട് പകരം ചേർക്കുന്നതാണ് ഇനി u2 നോക്കുകയാണെങ്കിൽ കാരണം 0 വർഗ്ഗമായിട്ടുള്ള ഹോമോജീനസ് ഫംഗ്ഷൻ ആണത് ഈ 0 വർഗ്ഗമായിട്ടുള്ളതിനാൽ വലതു വശത്ത് നമുക്ക് 0 ആയി ലഭിക്കും കാരണം ഇവിടെ n ആണ് അപ്പോൾ n പൂജ്യമാണ് വർഗ്ഗവും പൂജ്യമാണ് അപ്പോൾ ഇത് ഇവിടെ 0 ആവും ഇനി ഇവിടെ നമുക്ക് ഈ രണ്ട് പ്രയോഗങ്ങളുണ്ട് ഇവിടെയുള്ള ഡെറിവേറ്റീവുകൾ നേരിട്ട് കണക്കു കൂട്ടാതെ ഇവിടെ നമ്മൾ യൂലെഴ്സ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്കത് കൂട്ടാം കാരണം zu1u2 എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫലം ലഭിക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ ഇവിടെ x2 ഉം ഇവിടെയുള്ളത് 2 ന് അനുസൃതമായിട്ടുള്ള ഭാഗിക ഡെറിവേറ്റീവായിട്ട് മാറും ഇവിടെ രണ്ട് വർഗ്ഗമായിട്ടുള്ള u1u2 ഉം ഇവിടെയും u1u2 ഉം വീണ്ടും ഇവിടെയും u1u2 ഉം ഇവിടെ ഉള്ളത് z ആണ് ഇത് ഇവിടെ z u10 ആവും അപ്പോൾ 2 ഉം u1 ഉം അധികം 0 വും അപ്പോൾ നമുക്ക് 2u1 എന്ന് മാത്രം ലഭിക്കും u1 എന്നത് xyfyyx ആണ് അപ്പോൾ നമുക്ക് ഈ ഫലം ഇവിടെയുള്ള പ്രയോഗത്തിന്റെ 2xyfyx ആയി ലഭിക്കും ഇനി അവസാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ z ഒരു xy എന്നതിന്റെ ഫംഗ്ഷൻ ആവുകയും x ഉം yഉം t യുടെ ഒരു ഫംഗ്ഷനും ആയിരിക്കുമ്പോൾ ഉപകാരപ്രദമായ കോമ്പോസിറ്റ് ഫംഗ്ഷനിന്റെ ഡിഫറെൻഷിയേഷൻ ഇന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഈ കേസിൽ നമുക്ക് t ക്ക് അനുസൃതമായിട്ടുള്ള z ന്റെ ഡെറിവേറ്റീവ് ഈ സൂത്രവാക്യം വഴി നമുക്ക് നേരിട്ട് കണക്ക് കൂട്ടാനാവുന്നതാണ് ഇത് x ന്റെയും y ന്റെയും സാമാന്യവൽക്കരണവുമാണ് അവ uv യുടെ ഫംഗ്ഷനുകൾ ആയിരിക്കും ഈ കേസിൽ u ക്ക് അനുസൃതമായിട്ടുള്ള z ൻറെ ഭാഗിക ഡെറിവേറ്റീവും v ക്ക് അനുസൃതമായിട്ടുള്ള z ൻറെ ഭാഗിക ഡെറിവേറ്റീവും ഈ സൂത്രവാക്യം പ്രകാരം കണക്ക് കൂട്ടാനാവുന്നതാണ് മാത്രമല്ല ഹോമോജീനസ് ഫംഗ്ഷനുകളുടെ യൂലെഴ്സ് സിദ്ധാന്തത്തിൽ നമ്മൾ പഠിച്ചത് ഒരു ഹോമോജീനസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് നമുക്ക് n വർഗ്ഗമുള്ള ഹോമോജീനസ് ഫംഗ്ഷന് വേണ്ടി പ്രയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ nz ആവും അതുകൊണ്ട് x∂ z ∂ x y ∂ z ∂y nz അല്ലെങ്കിൽ ഈ z n വർഗ്ഗമുള്ള x ന്റെയും y യുടെയും ഹോമോജീനസ് ഫംഗ്ഷൻ ആവുമ്പോൾ 2 വർഗ്ഗമുള്ള ഡെറിവേറ്റീവുകളെ nz എന്നായി എഴുതാവുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് ഈ ലക്ച്ചർ തയ്യാറാക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ള റഫറൻസുകൾ നന്ദി